എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഐഐടി കാൺപൂരിൽ നിന്ന് എൻപിടിഇഎൽ മൂക് വഴിയാണ് ഞങ്ങൾ ഇത് നൽകുന്നത് ഞാൻ രവി ചന്ദ്രൻ കഴിഞ്ഞ 6 ആഴ്ചകളായി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഇപ്പോൾ നമ്മൾ ആറാം ആഴ്ചയിലെ നാലാമത്തെ മൊഡ്യൂളിലാണ് ഇത് പ്രഭാഷണ നമ്പർ 34 ആണ് അതിനാൽ മിക്കവാറും നമുക്ക് രണ്ട് ആഴ്ചകൾ കൂടി മാത്രമേയുള്ളൂ തുടർന്ന് രണ്ട് പ്രഭാഷണങ്ങൾ കൂടി ഈ ആഴ്ച പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഞാൻ ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ഞാൻ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുമ്പത്തേതിൽ ഞാൻ നിങ്ങളോട് പരാമർശിച്ച തെറ്റായ ആശയവിനിമയം നോക്കാം നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഓർഗനൈസേഷണൽ സജ്ജീകരണത്തിൽ പോലും തെറ്റായ ആശയവിനിമയം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുൻ പ്രഭാഷണത്തിൽ ഞാൻ ചർച്ച ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിക്കാൻ ശ്രമിക്കാം ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ച് വ്യക്തിപരമായ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു തുടർന്ന് ആളുകൾക്ക് എങ്ങനെ തെറ്റുകൾ സംഭവിക്കാമെന്നും ഭാഷയുടെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും പദപ്രയോഗത്തിന്റെ കാര്യത്തിലും അവിടെയുള്ള ഔദ്യോഗിക ആശയവിനിമയ ഭാഷ അറിയാത്തതിന്റെ കാര്യത്തിലും റഫറൻസ് ഫ്രെയിം പരിമിതമാകുമ്പോൾ തെറ്റായ ആശയവിനിമയം നടത്താമെന്നും ഞാൻ ആരംഭിച്ചു ഞാൻ ചർച്ച ചെയ്ത അടുത്ത വശം വൈകാരിക ഇടപെടലായിരുന്നു തുടർന്ന് വൈകാരിക ഇടപെടൽ പോസിറ്റീവും നെഗറ്റീവും ആയി സംഭവിക്കാം അത് പ്രണയമാകാം വെറുപ്പായിരിക്കാം പക്ഷേ രണ്ടിനും ഇടപെടലുകളായി പ്രവർത്തിക്കാൻ കഴിയും തുടർന്ന് ഭയം കോപം ദുഃഖം മുതലായ മറ്റ് വികാരങ്ങൾ പോലും വളരെ ശക്തമായ വൈകാരിക തടസ്സമായി പ്രവർത്തിക്കും മറികടക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ പുതിയ എന്തെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ആളുകൾ അത് സ്വീകരിക്കാൻ ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മാറ്റത്തെക്കുറിച്ചുള്ള ഭയം നീക്കം ചെയ്യേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കിടേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണം ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം നിങ്ങൾ ശരിയായ മാനസിക നിമിഷം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങൾ ഇടപഴകുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമായ ആനുകൂല്യം ലഭിക്കുന്നു വിവിധ തരത്തിലുള്ള ഭാഷാ തടസ്സങ്ങൾ ഒരേ വാക്കുകൾ വ്യത്യസ്ത സാംസ്കാരിക അർത്ഥങ്ങൾ ഒരേ അക്ഷരങ്ങൾ വ്യത്യസ്ത വ്യാകരണ അർത്ഥങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു ചില നോൺ വെർബൽ കോറിലേറ്റീവുകൾ ഉപയോഗിച്ച് സന്ദർഭം വ്യക്തമാക്കുകയും വ്യക്തത തേടുകയും അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത ചില തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നാം വളരെ ജാഗ്രത പാലിക്കേണ്ട സാങ്കേതിക തടസ്സവും അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും ഒരിക്കൽക്കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവസാനം ഞാൻ ഉപസംഹരിച്ചു നിങ്ങൾ ഉചിതമായ മാധ്യമം ഉപയോഗിക്കണമെന്നും മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ദുരുപയോഗം ഒഴിവാക്കണമെന്നും ഞാൻ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇത് ചർച്ച ചെയ്ത ഞാൻ തെറ്റായ ആശയവിനിമയത്തെക്കുറിച്ച് മുമ്പത്തെ പ്രഭാഷണത്തിൽ എവിടെയോ പരാമർശിച്ചിട്ടുണ്ട് എന്താണ് തെറ്റായ ആശയവിനിമയം ഈ പ്രഭാഷണത്തിനായി നമുക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആശയവിനിമയം പ്രവർത്തന ഇടപാടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നു ആരെങ്കിലും ഫീഡ്ബാക്ക് തിരികെ അയയ്ക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാട് ഉൾപ്പെടുന്നു ഈ തെറ്റായ ആശയവിനിമയം പ്രവർത്തന ഇടപാട് പരാജയത്തിന്റെ ഉദാഹരണങ്ങളായി കാണാൻ കഴിയും അപ്പോഴാണ് സ്പീക്കർ ഉദ്ദേശിച്ച ഫലം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അതിനാൽ അത് തെറ്റായ ആശയവിനിമയത്തിന് കാരണമാകുന്നു പ്രഭാഷകൻ എന്താണ് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ അത് തെറ്റായ ധാരണയുടെ പര്യായമാണ് വളരെ രസകരമായ ചില ചിത്രീകരണ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാകും എന്നാൽ ഈ പ്രത്യേക മൊഡ്യൂളിലേക്ക് പോകുന്നതിനുമുമ്പ് ഞാൻ കമ്പനികൾ ആശയവിനിമയത്തിനായി ഔപചാരികമായ ചാനലുകൾ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷനുകളുടെ ഓർഗനൈസേഷണൽ സജ്ജീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ഇപ്പോൾ ഓർഗനൈസേഷനുകളിൽ ഉപയോഗിക്കുന്ന ഒരു ആശയവിനിമയ സജ്ജീകരണത്തിൽ നിങ്ങൾക്ക് ആശയവിനിമയത്തിന്റെ താഴേക്കുള്ള ഒഴുക്ക് ഉണ്ടായിരിക്കാം അതായത് മാനേജ്മെന്റ് ഒരു പിരമിഡ് ഘടന പോലെ മുകളിലാണ് സിഇഒയോ മാനേജറോ ആയ മാനേജ്മെന്റ് നിർദ്ദേശങ്ങൾ നൽകുകയും തുടർന്ന് നിർദ്ദിഷ്ട തൊഴിൽ പദ്ധതികൾ കമ്പനി നയങ്ങൾ ക്ലയന്റുകളുമായി ബന്ധപ്പെട്ട നയങ്ങൾ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ തുടർന്ന് ദൌത്യ പ്രസ്താവനകൾ എന്നിവ വ്യക്തമാക്കുകയും ചെയ്യുന്നു പിന്നെ ആ ലക്ഷ്യങ്ങൾക്കും ദൌത്യ പ്രസ്താവനകൾക്കും ഉള്ളിൽ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ അതിനാൽ അത് ആശയവിനിമയത്തിന്റെ താഴേക്കുള്ള ഒഴുക്കാണ് ടാസ്ക് കോർഡിനേഷൻ ഉള്ളതിനാൽ തെറ്റായ ആശയവിനിമയത്തിനുള്ള സാധ്യത കുറവുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഈ തിരശ്ചീന തലവും ഉണ്ട് തിരശ്ചീന തലത്തിൽ ആളുകൾക്ക് വന്ന് പരസ്പരം സംയോജിപ്പിക്കാൻ കഴിയും മുകളിലില്ല താഴെയില്ല വിവരങ്ങൾ പങ്കിടൽ വളരെ യോജിച്ചാണ് നടക്കുന്നത് പ്രശ്നപരിഹാരം കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യുന്നു സംഘർഷ പരിഹാരം വളരെ എളുപ്പമാണ് ഇത് നിർദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും മികച്ച രൂപമാണ് എന്നാൽ ചില കമ്പനികൾ ഒരു പരിധിവരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന മുകളിലേക്കുള്ള രൂപവുമുണ്ട് അതിനാൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി അവർ ആരംഭിക്കും ക്ലയന്റുകളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും താഴ്ന്ന നിലയിലുള്ള ആളുകളിൽ നിന്നുമുള്ള ഫീഡ്ബാക്കിലൂടെ അവർ പോകുകയും തുടർന്ന് ഉപഭോക്തൃ ഇടപെടലുകളുടെ റിപ്പോർട്ടുകളും അവരുടെ ഫീഡ്ബാക്കും ഉപയോഗിച്ച് അവർ അത് കൂടുതൽ എടുക്കുകയും ചെയ്യും അവർ പുരോഗതി റിപ്പോർട്ടുകളും നോക്കുന്നു തുടർന്ന് അവർക്ക് ജീവനക്കാരുടെ പ്രതികരണവും ലഭിക്കുന്നു തുടർന്ന് അവർ അവരുടെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ മിഷൻ പ്രസ്താവനകൾ നിർദ്ദേശങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ താഴേക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ചില കമ്പനികളുണ്ട് ചിലത് മുകളിലേക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സംഘടനാ ഘടനയിൽ വളരെ വഴക്കമുള്ള മിക്ക കമ്പനികളും തിരശ്ചീനമായ ആശയവിനിമയ മാതൃകയിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ ഔപചാരിക ചാനലുകളിലൂടെ ഏത് തരത്തിലുള്ള ആശയവിനിമയമാണ് യഥാർത്ഥത്തിൽ ഒഴുകുന്നത് ഇത് എഴുതാം വാക്കാലുള്ളതായിരിക്കാം ഇലക്ട്രോണിക് രൂപത്തിലുമാകാം രേഖാമൂലമുള്ള രൂപത്തിൽ അവർക്ക് എക്സിക്യൂട്ടീവ് മെമ്മോകൾ അയയ്ക്കാം മെമ്മോറാണ്ടങ്ങൾക്കുള്ള ഹ്രസ്വ രൂപമാണ് മെമ്മോകൾ ചില ലളിതമായ അറിയിപ്പുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയയ്ക്കുന്ന ഒരു തരത്തിലുള്ള ശാസന കുറിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ കത്തുകളെക്കുറിച്ചോ ആർക്കെങ്കിലും നൽകുന്ന ഹ്രസ്വ കുറിപ്പുകൾ വാർഷിക റിപ്പോർട്ട് ഒരു രേഖാമൂലമുള്ള ആശയവിനിമയം കമ്പനി വാർത്താക്കുറിപ്പ് ബുള്ളറ്റിൻ ബോർഡ് പോസ്റ്റിംഗുകൾ ഓറിയന്റേഷൻ മാനുവൽ എന്നിവയും ആണ് വാക്കാലുള്ള ആശയവിനിമയം ടെലിഫോൺ മുഖാമുഖം സംഭാഷണം കമ്പനി മീറ്റിംഗുകൾ ടീം മീറ്റിംഗുകൾ എന്നിവയുടെ രൂപത്തിൽ എല്ലാം വാക്കാലുള്ള ആശയവിനിമയമാണ് ഇലക്ട്രോണിക് മാധ്യമ ആശയവിനിമയത്തിൽ മുകളിൽ ഇമെയിൽ ഉൾപ്പെടുന്നു തുടർന്ന് വോയ്സ് മെയിൽ തൽക്ഷണ സന്ദേശമയയ്ക്കൽ മെയിലുകളുടെ ഇൻട്രാനെറ്റ് ഉപയോഗം ആശയവിനിമയം തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗും ഉപയോഗിക്കുന്നു ഇപ്പോൾ ചാനലുകളുടെ ഈ ഒഴുക്ക് ഉണ്ടാകുകയും തുടർന്ന് മുകളിലേക്ക് താഴേക്കുള്ള തിരശ്ചീന ചലനം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സംഘടനകളിലെ വിവരങ്ങളുടെ ഒഴുക്കിനു തടസ്സങ്ങൾ ഉണ്ടാകും ഞാൻ ചില ഉദാഹരണങ്ങൾ നൽകും എന്നാൽ എന്തുകൊണ്ടാണ് കമ്പനികളിൽ തടസ്സങ്ങൾ സംഭവിക്കുന്നത് അതിനാൽ മിക്കപ്പോഴും നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ആശയവിനിമയ അന്തരീക്ഷം അടച്ചിരിക്കുമ്പോൾ അത് തുറന്നിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ സ്വതന്ത്രമായി ചർച്ച ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതികരണമൊന്നും എടുക്കുന്നില്ലെങ്കിൽ ശരിയായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി അറിയില്ലെങ്കിൽ അവർ എങ്ങനെ അവരുടെ ജോലി നിർവഹിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് ശ്രേണിയും ഇതിനെ ബാധിക്കും പ്രത്യേകിച്ച് പിരമിഡ് രീതി ആശയവിനിമയത്തിന്റെ തിരശ്ചീനമായ ലംബമായ ഒഴുക്ക് പോലും തുടർന്ന് നിരവധി നോഡൽ പോയിന്റുകളുള്ള നീണ്ട ആശയവിനിമയ ലൈനുകൾ ഉണ്ട് നിങ്ങൾ എത്തുന്നതിനുമുമ്പ് നിരവധി കണക്റ്റീവ് പോയിന്റുകൾ ഉണ്ട് അതിനാൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു അദ്ധ്യാപകനായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് പരാതിപ്പെടേണ്ട മുതിർന്ന അദ്ധ്യാപകനായ ഒരാളുണ്ട് സീനിയർ ടീച്ചർക്കോ പ്രൊഫസർക്കോ റിപ്പോർട്ട് ചെയ്യേണ്ട മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ട് തുടർന്ന് മാനേജ്മെന്റ് തലത്തിൽ ആരെങ്കിലും ഉണ്ട് തുടർന്ന് ആ വ്യക്തിക്ക് ശേഷം ഈ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് തുടർന്ന് അത് ഡയറക്ടറുടെ അടുത്തേക്ക് പോകുന്നു തുടർന്ന് അത് സിഇഒയിലേക്കോ ബോർഡ് ഓഫ് ഗവർണറിലേക്കോ പോകുന്നു അതിനാൽ ഉയർന്ന തലത്തിൽ ആളുകൾ അവിടെയുണ്ട് പക്ഷേ അത് എത്തുന്നതിനുമുമ്പ് നിരവധി ട്രാൻസ്ഫർ സ്റ്റേഷനുകൾ ഉണ്ട് ഓരോ പോയിന്റിലും ആശയവിനിമയം വളച്ചൊടിക്കപ്പെടാം സന്ദേശം നൽകുന്നതിൽ കാലതാമസമുണ്ടാകാം എന്നാൽ മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ വിശ്വാസക്കുറവ് ഉണ്ടാകുമ്പോഴും തടസ്സമുണ്ട് അതിനാൽ ആശയവിനിമയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് വിശ്വാസം അത് തകർന്നുകഴിഞ്ഞാൽ അത് പാച്ച് അപ്പ് ചെയ്യാനും പിന്നീട് പുനർനിർമ്മിക്കാനും ആശയവിനിമയ ഒഴുക്ക് വളരെ എളുപ്പത്തിൽ നിലനിർത്താനും വളരെ ബുദ്ധിമുട്ടാണ് വിശ്വാസമില്ലാത്തപ്പോൾ ജീവനക്കാർ എന്തു ചെയ്യും അതിനാൽ അവർ മുന്തിരി വീഞ്ഞായ ഒരു അനൌപചാരിക സംവിധാനത്തിലേക്ക് തിരിയും അവർ ഡ്രമ്മർമാരിൽ വിശ്വസിക്കും ഗ്രേപ്പ് വൈൻ എന്നാൽ യഥാർത്ഥത്തിൽ ഔപചാരികമായി സ്വീകാര്യമല്ലാത്ത ഒരു ആശയവിനിമയത്തിലേക്ക് പോകാനുള്ള വിശ്വാസം എന്നാൽ ഉദാഹരണത്തിന് ഗോസിപ്പ് അപ്പോൾ ആളുകൾ അധികാരികളിൽ നിന്നോ ആധികാരിക വ്യക്തിയിൽ നിന്നോ വരുന്ന യഥാർത്ഥ ഔപചാരിക ആശയവിനിമയത്തേക്കാൾ കൂടുതൽ അതിനെ ആശ്രയിക്കും അധികാരം സ്ഥാനം പദവി പ്രതിഫലം എന്നിവയ്ക്കായി ഈ മത്സരം നടക്കുന്നതിനാൽ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതിനാൽ ആളുകൾ മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ അവർ വിവരങ്ങൾ മറയ്ക്കുന്നു വിവരങ്ങൾ പങ്കിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല വിവരങ്ങൾ ശക്തിയാണെന്ന് അവർ കരുതുന്നു അതിനാൽ എന്തുകൊണ്ടാണ് ആരെങ്കിലും ഒരാളുടെ അധികാരം മറ്റൊരാളുമായി പങ്കിടുന്നത് എന്നാൽ മൊത്തത്തിൽ ഇത് തെറ്റായ ആശയവിനിമയത്തിന് കാരണമാകും ഇത് കമ്പനികൾ നടത്തുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കും ഇപ്പോൾ അഞ്ച് തലത്തിലുള്ള മാനേജ്മെന്റിലൂടെ താഴേക്കുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു സന്ദേശ വളച്ചൊടിക്കൽ നോക്കാം ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടർമാർ ആദ്യം സന്ദേശം എഴുതുമ്പോൾ എന്ത് സംഭവിക്കും സന്ദേശം 100 ശതമാനമാണ് ഇത് വളരെ വ്യക്തമായ രീതിയിലാണ് ചെയ്യുന്നതെന്ന് ഡയറക്ടർ ബോർഡ് ഉറപ്പാക്കുകയും തുടർന്ന് അവർ വളരെ വ്യക്തമായി എഴുതുകയും സന്ദേശം കൃത്യവും വ്യക്തവുമായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിന് അത് ലഭിച്ചപ്പോൾ താഴേക്കുള്ള ആശയവിനിമയത്തിൽ അടുത്ത ഘട്ടം വന്നു ചില ജോഗിനുകൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായില്ല പക്ഷേ വ്യക്തത കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല അതിനാൽ അടുത്ത വ്യക്തിക്ക് ലഭിച്ച 37 ശതമാനം വ്യക്തത ഇല്ലാതാകുകയും അദ്ദേഹം അതിനെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തപ്പോൾ അത് 63 ശതമാനം മാത്രമായിരുന്നു ജനറൽ സൂപ്പർവൈസർ സ്വീകരിച്ചപ്പോഴേക്കും അദ്ദേഹം അത് ജനറൽ സൂപ്പർവൈസർക്ക് അയച്ചു അത് 56 ശതമാനമായി ഇപ്പോൾ വീണ്ടും താഴേക്കുള്ള ആശയവിനിമയത്തിലെ ജനറൽ സൂപ്പർവൈസർക്ക് അവർക്ക് എല്ലായ്പ്പോഴും ഉയരത്തിലേക്ക് പോകാൻ കഴിയുന്ന പരന്ന ശ്രേണിയിൽ മാത്രം ഉയരത്തിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ അവർക്ക് പോയി വ്യക്തത തേടാൻ കഴിയില്ല അവർ സൈനിക സൈന്യത്തിലെന്നപോലെ വിവരങ്ങൾ സ്വീകരിക്കാൻ മാത്രമുള്ളവരാണ് അതിൽ പ്രവർത്തിക്കാൻ അവർക്ക് വ്യക്തത തേടാൻ കഴിയില്ല അതിനാൽ അത് പ്ലാന്റ് മാനേജരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് 40 ശതമാനമായി മാറുകയും അത് ടീം ലീഡറുടെ അടുത്തെത്തിയപ്പോൾ അത് 30 ശതമാനമായി മാറുകയും ചെയ്തു അതിനാൽ സന്ദേശം വളച്ചൊടിക്കപ്പെടുന്ന തലങ്ങൾ നിങ്ങൾക്ക് നോക്കാം ഒടുവിൽ ഇത് നടപ്പാക്കേണ്ട തൊഴിലാളി അത് എത്തുമ്പോൾ അത് വെറും 20 ശതമാനമായി മാറി അതിനാൽ ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള 100 ശതമാനത്തിൽ നിന്ന് അത് തൊഴിലാളിയുടെ അടുത്തേക്ക് പോയപ്പോൾ അത് യഥാർത്ഥത്തിൽ 20 ശതമാനമായി അതിനാൽ സാധ്യമായ വളച്ചൊടിക്കലിന്റെ നിലവാരമാണിത് അതിനാൽ ഒരാൾ വളരെ ശ്രദ്ധിക്കണം ഉൽപ്പന്ന വികസനത്തിൽ തെറ്റായ ആശയവിനിമയം എങ്ങനെ സംഭവിക്കുന്നു എന്നതിന്റെ രസകരമായ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരു ഉപഭോക്താവിന് ഒരു പ്രത്യേക ഉൽപ്പന്നം ആവശ്യമായിരുന്നു തുടർന്ന് അവിടെയുള്ള ഏറ്റവും ഉയർന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുമെന്ന ആശയം അറിയിക്കുകയും തുടർന്ന് ഒന്നിനുപുറകെ ഒന്നായി അവർ അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തു അതിനാൽ അവർ അത് എങ്ങനെ നിർവ്വഹിച്ചുവെന്നും ക്ലയന്റ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് എന്താണെന്നും നമുക്ക് നോക്കാം ഇപ്പോൾ ക്ലയന്റ് മാർക്കറ്റിംഗ് ആവശ്യപ്പെട്ടത് ഈ രീതിയിൽ അഭ്യർത്ഥിച്ചു അതിനാൽ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അവർ അതിനാൽ അവർക്ക് മൂന്ന് തലങ്ങളിൽ ഒരു ത്രിതല സ്വിംഗ് ആവശ്യമായിരുന്നു അതിനാൽ അവർ ഒരു സ്വിംഗ് വിൽപ്പന ആഗ്രഹിച്ചു അവർ അത് ഓർഡർ ചെയ്തപ്പോൾ അവർ ആ പാളിയുടെ ടയർ ഭാഗം നീക്കം ചെയ്തു അതിനാൽ മൂന്ന് കയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നതായി അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ കഴിയും അതിനാൽ അവർ ഇത് ഈ രൂപത്തിൽ ഓർഡർ ചെയ്തു ഇപ്പോൾ വിൽപ്പനയിൽ നിന്ന് അത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് ആളുകളിലേക്ക് മാറിയപ്പോൾ എഞ്ചിനീയറിംഗ് ആളുകൾ ഇത് ഈ രീതിയിൽ രൂപകൽപ്പന ചെയ്തു അതിനാൽ അത് മരത്തിൽ കെട്ടണമെന്ന സന്ദേശം അവർക്ക് ലഭിച്ചു പക്ഷേ അത് ഒരു ഊഞ്ഞാലിന് തുല്യമായിരിക്കണം എന്ന സന്ദേശം എങ്ങനെയോ നഷ്ടമായി അതിനാൽ എഞ്ചിനീയർമാർ ഈ വഴി തീരുമാനിച്ചു തുടർന്ന് അത് നിർമ്മാണത്തിലേക്ക് പോയി ഒടുവിൽ അവർ അത് നിർമ്മിച്ചു എങ്ങനെയോ അത് ഒരു ഊഞ്ഞാലിനാണെന്ന ആശയം അവർക്ക് വീണ്ടും ലഭിച്ചു പക്ഷേ അവർ അത് മരത്തിൽ ഈ രീതിയിൽ നിർമ്മിച്ചു പക്ഷേ അത് പ്രവർത്തനപരമായി ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അതിന് തിരികെ പോയി മുന്നോട്ട് വരാൻ കഴിയില്ല അതിനാൽ ഒടുവിൽ അറ്റകുറ്റപ്പണികൾക്കായി അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് അങ്ങനെയായിരുന്നു അതിനാൽ ഇത് പ്രവർത്തനക്ഷമമാകണമെന്ന് അവരോട് പറഞ്ഞു അതിനാൽ അവർ എന്താണ് ചെയ്തത് അവർ മരം മുറിച്ചു തുടർന്ന് അവർ മരം മുറിച്ചതിനാൽ ഇത് കെട്ടാൻ കഴിയില്ല അതിനാൽ അവർ മരത്തിന് കുറച്ച് പിന്തുണ നൽകി അതിനാൽ അത് അറ്റകുറ്റപ്പണിയുടെ ജോലിയാണ് തുടർന്ന് ചില സാധ്യതകളോടെ സ്വിങ്ങിന് ഒരുതരം നിമിഷം സാധ്യമാണ് പക്ഷേ വ്യക്തി എവിടെ ഇരിക്കും അങ്ങനെയാണ് ആശയവിനിമയ ഒഴുക്ക് സംഭവിക്കുന്നത് തുടർന്ന് തെറ്റായ ആശയവിനിമയം നടക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഒടുവിൽ ഉപഭോക്താവിന് വേണ്ടത് വളരെ ലളിതമായ ഒരു ട്രീ ടയർ സ്വിംഗ് ആയിരുന്നു ആ ടയർ നല്ല കയർ കൊണ്ട് കെട്ടിയിടണമെന്ന് ഉപഭോക്താവ് ആഗ്രഹിച്ചു അതിനാൽ ഉപഭോക്താവ് അത് കെട്ടാൻ ആഗ്രഹിച്ചു പക്ഷേ ആളുകൾ ഈ ടയർ വ്യത്യസ്ത പാളികൾ കീറുന്നതായി മനസ്സിലാക്കി അതിൽ നിന്ന് ആശയക്കുഴപ്പം ആരംഭിച്ചു ഒടുവിൽ നിർമ്മാണം സജ്ജീകരിച്ചപ്പോൾ അതിനാൽ ആർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ അവർ ആഗ്രഹിച്ചത് വളരെ ലളിതമായ ഒരു ട്രീ ടയർ സ്വിംഗ് ആയിരുന്നു ആശയവിനിമയം എങ്ങനെ പൂർണ്ണമായും തെറ്റാകുമെന്നും ആളുകൾക്ക് എങ്ങനെ പൂർണ്ണമായും തെറ്റായി വ്യാഖ്യാനിക്കാനും ഇത്തരത്തിലുള്ള തെറ്റായ ആശയവിനിമയത്തിൽ അവസാനിക്കാനും കഴിയുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘടനകളിലെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ പരിഷ്ക്കരണം നേരിട്ടുള്ള ആക്സസ് നൽകണം അതായത് ആളുകൾ നിരവധി ഫോൺ കോളുകൾ ഉപയോഗിക്കുന്നതിനിടയിൽ നിരവധി ആളുകളുമായി സംസാരിക്കുന്ന നിരവധി ആശയവിനിമയങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നിരവധി ഇമെയിലുകൾ ഫോർവേഡുകൾ അയയ്ക്കുന്നു ചിലപ്പോൾ ബന്ധപ്പെട്ട വ്യക്തിക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയും ഇതിനുപുറമെ നിരവധി ചാനലുകളിലൂടെ പ്രചരിപ്പിക്കണം ഉദാഹരണത്തിന് കമ്പനിയുടെ ബോസ് അത് ദൂരെ നിന്ന് ഉച്ചഭാഷിണി ഉപയോഗിച്ച് പ്രഖ്യാപിച്ചു അതിനാൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തുമ്പോഴാണ് വിമാനം പോയത് അതിനാൽ ചില ശബ്ദ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതിനാൽ ആളുകൾക്ക് അത് കേൾക്കാൻ കഴിയാത്ത സമയം അദ്ദേഹം പരാമർശിച്ച തീയതി കേൾക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഓരോരുത്തരും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു അതിനാൽ മറ്റൊരു ചാനൽ ഉപയോഗിക്കുക അതിനാൽ അത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുക അതിനാൽ ആളുകൾക്ക് ഇത് വ്യക്തമായി കാണാൻ കഴിയും എസ്എംഎസ് അയയ്ക്കുക ഇമെയിൽ അയയ്ക്കുന്ന തീയതിയും സമയവും അവരോട് പറയുക അതിനാൽ നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അത് ആശയക്കുഴപ്പത്തിലാക്കരുത് ഇപ്പോൾ ഞാൻ അമിതമായ ഉപയോഗം നിർദ്ദേശിക്കുന്നു അത് എവിടെയാണ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയെന്ന് ഞാൻ പറയുന്നു തുടർന്ന് അർത്ഥം വളരെ വ്യക്തമാക്കാൻ നിങ്ങൾ കൂടുതൽ ചാനലുകൾ ഉപയോഗിക്കുന്നു അതിനാൽ അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അത് ഫലപ്രദമായി ഉപയോഗിക്കാനും ഒന്നിലധികം സ്രോതസ്സുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഫീഡ്ബാക്ക് സംവിധാനം വികസിപ്പിക്കാനും ശ്രമിക്കാം ഇപ്പോൾ ആളുകൾ മാനേജറെക്കുറിച്ചോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വകുപ്പ് മേധാവിയെക്കുറിച്ചോ പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ പ്രോട്ടോക്കോൾ പറയുന്നു നിങ്ങൾക്ക് ഈ ആളുകളെക്കുറിച്ച് ഉന്നത അധികാരികൾക്ക് പരാതി നൽകണമെങ്കിൽ നിങ്ങൾ അത് ഈ ആളുകൾക്ക് കൈമാറണം ആദ്യം നിങ്ങളുടെ സ്വന്തം പരാതി നിങ്ങൾ പരാതി നൽകുന്ന വകുപ്പ് മേധാവി ഒപ്പിടണം അല്ലാത്തപക്ഷം അവൻ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല പക്ഷേ സ്വയം നൽകുന്നത് നിങ്ങളെ വലിയ ആശയക്കുഴപ്പത്തിലാക്കും കാരണം അവൻ അത് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല അതിനാൽ ഒന്നിലധികം സ്രോതസ്സുകൾ ഉൾക്കൊള്ളുന്ന ഈ ഫീഡ്ബാക്ക് സംവിധാനം ഉണ്ടായിരിക്കണം ഈ വ്യക്തി മാത്രമല്ല തലവനോ മാനേജറോ എല്ലാ ഫീഡ്ബാക്കും എടുത്ത് ഉന്നത അധികാരികൾക്ക് നൽകും എന്നാൽ മറ്റ് നിരവധി സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം അവിടെ പെട്ടികൾ സൂക്ഷിക്കാം അവർ ഫീഡ്ബാക്ക് നൽകുന്നു ഉയർന്ന അധികാരികൾ ബന്ധപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സമയം വ്യക്തമാക്കാം ഒരു പ്രത്യേക സമയത്ത് ആളുകൾക്ക് ഇമെയിൽ ചെയ്യാനോ വിളിക്കാനോ പോലും മറ്റ് വഴികൾ അനുവദിക്കാം അതിനാൽ ഈ ചാനലുകൾ ഫീഡ്ബാക്കിനായി തുറന്നിടുക അങ്ങനെ അത് സംഘടനാപരമായ തടസ്സങ്ങൾ വീണ്ടും കുറയ്ക്കും മൊത്തത്തിൽ ആശയവിനിമയത്തിനും ഫീഡ്ബാക്കിനും തുറന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ആശയവിനിമയം മിക്കവാറും കുറയ്ക്കും പിരമിഡിന് പകരം സംഘടനാ ഘടനയെ പരന്നതാക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കോ താഴേക്കോ മുകളിലേക്കോ ഉള്ള വിപരീത മാതൃക അത് ഒരു പിരമിഡിലേക്ക് ഉയരുന്ന രീതിയിലായാലും അല്ലെങ്കിൽ ഒരു പിരമിഡിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലായാലും നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ പരന്ന മാതൃക ആർക്കും കാണാൻ കഴിയും അത് തിരശ്ചീനമായ ആശയവിനിമയ രീതിയാണ് അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ കാര്യങ്ങളുടെ അരികിൽ ഉണ്ടെങ്കിൽ ഔപചാരിക ചാനലുകളിലൂടെ മതിയായ വിവരങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയം വർദ്ധിപ്പിക്കുന്നതിന് എത്രത്തോളം തെറ്റായ ആശയവിനിമയം കുറയ്ക്കുന്നുവെന്ന് അത് വീണ്ടും സൃഷ്ടിക്കും അതിനാൽ ചില കമ്പനികളിൽ ഇമെയിൽ ഔപചാരിക ചാനലാണ് മറ്റേതെങ്കിലും നോട്ടീസ് അയയ്ക്കുന്നത് ഔപചാരിക ചാനലാണ് അതിനാൽ നിങ്ങൾ വിവരങ്ങൾ അയയ്ക്കുമ്പോൾ മതിയായ വിവരങ്ങൾ നൽകുന്ന ഈ ഔപചാരിക ചാനലുകളെല്ലാം വിവരങ്ങൾ കുറയ്ക്കുന്നില്ല അങ്ങനെ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു തെറ്റായ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ലഘുവായ കുറിപ്പോടെ ഞാൻ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു തമാശയാണ് നെറ്റിൽ നിന്ന് എനിക്ക് ഇത് രസകരമായി തോന്നി ഇത് നിങ്ങളുമായി പങ്കിടണമെന്ന് ഞാൻ കരുതി ഇത് ചിലപ്പോൾ തെറ്റായ ആശയവിനിമയം സംഭവിക്കുന്നു കാരണം നിങ്ങൾ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നു അതിനാൽ അത് രസകരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ ഭാര്യ എന്താണ് പറയുന്നത് അതിനാൽ കടയിൽ പോകൂ എന്ന് ഭാര്യ പറയുന്നു അതിനാൽ അത് ഗ്രൌണ്ട് വാഷിൽ ഇടുകയും ചരടിൽ വാക്സ് ഇടുകയും ചെയ്യുന്നതുപോലെയാണ് സ്കൂളിലെ കുട്ടികളെ ചില വീഡിയോകൾ വാടകയ്ക്ക് എടുക്കുകയും ബാക്കി വിഭവങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക ഇപ്പോൾ അവൾ ദിവസം മുഴുവൻ നിരവധി ജോലികൾ നൽകിയിട്ടുണ്ട് ഭർത്താക്കന്മാർ കേൾക്കുന്ന കാര്യങ്ങളെ കാർട്ടൂൺ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഭർത്താവ് താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന വാക്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ അവൻ മനസ്സിൽ ഒരു ഫിൽട്ടർ ഇടുകയും തുടർന്ന് തനിക്ക് അനുകൂലമായി പറയുന്നത് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ അവൻ ഈ വാക്കുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ പോയി കിടന്ന് കുറച്ച് വിശ്രമിക്കുക അവൻ അത് പോയി ഉറങ്ങുമ്പോൾ എടുക്കുന്നു അതേസമയം ഭാര്യ ദിവസം മുഴുവൻ ജോലി നൽകിയിട്ടുണ്ട് ഇപ്പോൾ തെറ്റായ ധാരണ എങ്ങനെ തെറ്റായ ആശയവിനിമയത്തിലേക്ക് നയിക്കുന്നുവെന്ന് പറയാനുള്ള ഒരു രസകരമായ മാർഗമാണിത് ഈ ഉദാഹരണവും ഞാൻ നിങ്ങൾക്ക് നൽകിയ മറ്റ് ചിത്രീകരണ ഉദാഹരണങ്ങളും തെറ്റായ ആശയവിനിമയം എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങളുടെ ആക്ഷൻ ഇന്ററാക്ഷൻ പ്രക്രിയ പൂർത്തിയാക്കുക തുടർന്ന് ഇത്തരത്തിലുള്ള ഫിൽട്ടറുകൾ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് വൈകാരിക ഇടപെടലുകൾ നീക്കം ചെയ്യാൻ ഉചിതമായ ഭാഷ ഉപയോഗിക്കുക നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പെർസെപ്ഷനൽ ഫിൽട്ടറുകൾ ആരെങ്കിലും വിമർശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽപ്പോലും അനുകൂലമായത് മാത്രം എടുക്കരുത് അതിനാൽ ഇവയെല്ലാം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ ക്രിയാത്മകമായി സഹായിക്കും അതിനാൽ നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു ആശയവിനിമയക്കാരനെന്ന നിലയിൽ വളരാൻ കഴിയും മുമ്പത്തേതിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ആശയവിനിമയ വൈദഗ്ദ്ധ്യം വികസിപ്പിക്കുന്നത് ഒരു വലിയ പ്രശ്നമല്ല മറ്റേതൊരു നൈപുണ്യത്തെയും പോലെ ഇത് പരിശീലനത്തിന്റെ കാര്യം മാത്രമാണ് നിങ്ങളുടെ ക്ഷമയാണ് അത് പരിശീലിക്കാനും തെറ്റായ ആശയവിനിമയം പരമാവധി ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും വളരെ ഫലപ്രദമായ ആശയവിനിമയക്കാരനാകുന്നതിനും ഈ നുറുങ്ങുകളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാ മേഖലകളിലും വളരെ ഫലപ്രദമായ ആശയവിനിമയക്കാരനാകാൻ ഒരിക്കൽക്കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ ഈ വീഡിയോ കണ്ടതിന് നന്ദി ആശയവിനിമയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വശങ്ങളുമായി ഞാൻ നിങ്ങളെ ബന്ധപ്പെടും പ്രത്യേകിച്ച് വാക്കേതര ആശയവിനിമയം നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി